FDTD യിൽ നടപ്പിലാക്കുന്ന ABC അതിനാൽ ഞാൻ വ്യക്തമാക്കുന്നു യഥാർത്ഥത്തിൽ FDTD യിൽ ഇത് ഞാൻ എങ്ങനെ നടപ്പാക്കും എന്ന അടുത്ത ചോദ്യത്തിലേക്ക് അത് നമ്മെ എത്തിക്കുന്നു അതിനാൽ നമുക്ക് വീണ്ടും ഒരു നിശ്ചിത സാഹചര്യം എടുക്കാം ഇതാണ് എന്റെ അതിർത്തി ഞാൻ നിങ്ങൾക്ക് ഒരു യീ സെൽ കാണിക്കുന്നു ഞാൻ അതിനെ കുറച്ചുകൂടി വലുതാക്കട്ടെ ഇത് വലതുവശത്തെ അതിർത്തിയാണ് അതായത് ഈ പരിധിക്കപ്പുറം ഒന്നുമില്ല ഇവിടെ ഞാൻ ഒരു ലളിതമായ 2D TM ധ്രുവീകരണ സാഹചര്യം എടുക്കുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നാൽ വൈദ്യുത മണ്ഡലത്തിന്റെ ഏത് ഘടകത്തിലേക്കാണ് ഇത് നമ്മൾ പ്രയോഗിക്കേണ്ടത് ഐഡന്റിറ്റികളിൽ അതിർത്തിയിലുള്ള മണ്ഡലം ഏതാണ് അല്ലേ എന്നാൽ അതിർത്തിയിൽ നിലകൊള്ളുന്ന ഒരു വേരിയബിൾ ആണ് അതിനാൽ എനിക്ക് യിൽ അതിർത്തി വ്യവസ്ഥ പ്രയോഗിക്കണം അതിനാൽ നമുക്കിത് FDTD യിൽ പ്രയോഗിക്കണം അതിനാൽ നമുക്ക് ആ വെല്ലുവിളി ഇപ്പോൾ കാണാം വിദ്യാർത്ഥി എന്നത് അതിർത്തിക്ക് സ്പർശകമാണ് എന്നത് അതിർത്തിക്ക് സ്പർശകമാണ് വലതു അതിർത്തിയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു സമതല തരംഗം ഉണ്ടെന്ന് കരുതുക k വെക്ടറുകൾ ഭിത്തിക്ക് ലംബമായാണ് സഞ്ചരിക്കുന്നത് പക്ഷേ വൈദ്യുത മണ്ഡലം എവിടെയായിരുന്നു വൈദ്യുത മണ്ഡലം സ്ഥിരമായി അനുപ്രസ്ഥമായാണ് ഉള്ളത് അല്ലേ നിങ്ങൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ ഇവിടെയുള്ള ഏതു പോയിൻറ്ലാണ് ആണ് ഈ വ്യവസ്ഥ പ്രയോഗിക്കാൻ പോകുന്നത് അത് ഇവിടെയാണ്

അതിനാൽ ഒരു സ്പെയ്സ് ഡെറിവേറ്റീവ് ഉണ്ട് ഒരു സമയ ഡെറിവേറ്റീവ് ഉണ്ട് പരിമിതമായ വ്യത്യാസങ്ങൾ ഉപയോഗിച്ച് ഞാൻ എങ്ങനെ സ്പേസ് ഡെറിവേറ്റീവ് കണക്കുകൂട്ടും അതിനാൽ ഒരു കേന്ദ്രവ്യത്യാസത്തിനുപകരം എനിക്ക് ഒരു പിന്നോക്ക വ്യത്യാസം എടുക്കാൻ കഴിയും എന്നതാണ് ഒരു സാധ്യത കേന്ദ്ര വ്യത്യാസം വലതുവശത്തുള്ള ചില മൂല്യങ്ങളെയും ഇടത് വശത്തുള്ള ചില മൂല്യങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു അതിനുശേഷം അവ രണ്ടും കുറയ്ക്കുക ഇവിടെ എനിക്ക് അത് ചെയ്യാൻ കഴിയില്ല കാരണം ഇത് പ്രദേശത്തിൻറെ അവസാനമാണ് ഇതിന്റെ വലതുവശത്ത് എനിക്ക് ഒന്നുമില്ല അതിനാൽ എനിക്ക് കേന്ദ്ര വ്യത്യാസം ചെയ്യാൻ കഴിയില്ല അതിനാൽ ഒരു സ്പെയ്സിൽ ഞാൻ ഒരു പിന്നോക്ക വ്യത്യാസം ചെയ്യുന്നു എനിക്ക് ഇപ്പോഴും കൃത്യമായി സമയത്തിൽ കേന്ദ്ര വ്യത്യാസം ചെയ്യാൻ കഴിയും പക്ഷേ ഒരു പിന്നോക്ക വ്യത്യാസം ചെയ്യുന്നതിന്റെ പോരായ്മ എന്താണെന്നാൽ തെറ്റ് വർദ്ധിക്കുന്നു ഇത് അതിർത്തി വ്യവസ്ഥയായതിനാൽ തെറ്റ് ഉണ്ടാകുന്നു തുടർന്ന് പരിമിതമായ വ്യത്യാസങ്ങൾ ചെയ്യുന്നതിനുള്ള എന്റെ അപൂർണ്ണമായ രീതിയാൽ നിങ്ങൾക്ക് കൂടുതൽ തെറ്റ് ലഭിക്കും അതിനാൽ എനിക്ക് പിന്നോക്ക വ്യത്യാസം ചെയ്യാനാകും പക്ഷേ തെറ്റ് വളരെ വലുതായിരിക്കും അതിനാൽ നമ്മൾ ചെയ്യുന്ന വിട്ടുവീഴ്ച കേന്ദ്ര വ്യത്യാസങ്ങൾ ഉപയോഗിക്കുക എന്നതാണ് പക്ഷേ എനിക്ക് കേന്ദ്ര വ്യത്യാസങ്ങൾ ചെയ്യാൻ കഴിയില്ല കാരണം ഈ അതിർത്തിയുടെ വലതുവശത്ത് വേരിയബിളുകൾ ഒന്നും ഇല്ല അതിനാൽ ഞാൻ അതിൽ കേന്ദ്രവ്യത്യാസങ്ങൾ പ്രയോഗിക്കുന്നു പക്ഷേ ഞാൻ ഇത് പ്രയോഗിക്കുകയാണെങ്കിൽ ഈ പകുതി സെൽ അതിർത്തിക്കുള്ളിൽ ഉദാഹരണത്തിന് x z എന്ന സ്ഥലത്ത് പ്രയോഗിക്കുന്നു അതിനാൽ ഞാൻ ഈ അതിർത്തി വ്യവസ്ഥ പ്രയോഗിക്കാൻ പോകുന്നു സാങ്കേതികമായി അത് അതിർത്തിയിൽ ആയിരിക്കണം പക്ഷേ ഇത് ചെയ്യുന്നത് പിന്നോക്ക വ്യത്യാസത്തിന്റെ പ്രശ്നമാണ് അതിനാൽ സെല്ലിന്റെ അവസാനത്തേക്കാൾ സെല്ലിന്റെ മധ്യത്തിൽ ഈ അതിർത്തി വ്യവസ്ഥ ഞാൻ പ്രയോഗിക്കുന്നു അതിനാൽ എനിക്ക് ഇടത്തും വലത്തും ഒരു മൂല്യമുണ്ട് അപ്പോൾ എനിക്ക് കേന്ദ്ര വ്യത്യാസങ്ങൾ ചെയ്യാൻ കഴിയും അതിനാൽ അത് ഒരു ഒത്തുതീർപ്പ് പരിഹാരമാണ് നിങ്ങൾ ഇത് ചെയ്യണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് ശരിക്കും ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നോക്ക വ്യത്യാസം ഉപയോഗിക്കാനും കഴിയും കൂടാതെ തെറ്റിന്റെ കാര്യത്തിൽ രണ്ടിനും ചില തുല്യതാപരമായ കൈമാറ്റങ്ങൾ ഉണ്ടാകും നിങ്ങൾക്ക് യുടെ മൂല്യം മാറ്റി നൽകേണ്ടിവരും അതിനാൽ FDTD യിൽ നടപ്പിലാക്കുന്ന ഈ മുഴുവൻ കാര്യങ്ങളും ഞാൻ യുടെ മൂല്യത്തെ അതിർത്തിയിൽ എങ്ങനെ മാറ്റി നൽകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിനാൽ ഇതിലേക്ക് ആണ് നമ്മൾ എത്താൻ ശ്രമിച്ചിരുന്നത് വിദ്യാർത്ഥി പിന്നോട്ട് അതെ അതിനാൽ ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങളോട് പറയാം അപ്പോൾ ആണ് പ്രയോഗിക്കേണ്ട ആദ്യപദം ഇതെങ്ങനെ ഞാൻ നടപ്പിലാക്കും അതിനാൽപിന്നോക്ക വ്യത്യാസം എടുക്കുന്നതിനു പകരം ഞാൻ കേന്ദ്ര വ്യത്യാസം എടുക്കുന്നു എനിക്ക് നേരത്തെ തന്നെ ഉള്ള മൂല്യങ്ങൾക്കിടയിൽ നിന്ന് മാത്രമേ എനിക്ക് എടുക്കാൻ പാടുകയുള്ളൂ അപ്പോൾ ഇടതുവശത്തെ യും വലതുവശത്തെ യും എടുത്ത് അവ തമ്മിലുള്ള വ്യത്യാസം എടുക്കണം പക്ഷേ ഞാൻ ആണ് ചെയ്യുന്നത് ഞാനിവിടെ രണ്ട് സന്ദർഭങ്ങളിൽ ഉള്ള ശരാശരിയാണ് എടുക്കുന്നത് അതിനാൽ ഞാൻ പരിമിതമായ വ്യത്യാസം കണ്ടെത്താൻ പോകുന്നത് n സന്ദർഭങ്ങളിൽ അല്ല പക്ഷേ തെറ്റുകൾ കുറയ്ക്കുന്നതിന് n 1 സന്ദർഭങ്ങളിൽ ശരാശരി കാണുന്നു കാരണം ഞാൻ അത് സെല്ലിന്റെ മധ്യത്തിലല്ല അതിർത്തിയിൽ ആണ് പ്രയോഗിക്കുന്നത് അതിനാൽ ആ തെറ്റ് കുറയ്ക്കണം അതിനായി ഞാൻ ഒരു ശരാശരി എടുക്കുന്നു അതിനാൽ ഇത് ഇവിടെ ശരാശരി ആയിരിക്കും

അതിനാൽ ഈ രണ്ട് പദപ്രയോഗങ്ങളുടെയും ഫലമായി ഇതും ഇതും വിലയിരുത്തപ്പെടുന്നു വ്യക്തമായും ആദ്യത്തേതിൻറെയും രണ്ടാമത്തേതിൻറെയും ഫലം ഇവിടെ സെല്ലിന്റെ മധ്യഭാഗത്ത് കൃത്യമായിരിക്കും ശരിയാണ് ഞാൻ ഇവിടെ നിന്നും ഇവിടെ നിന്നും ചില ശരാശരികൾ എടുക്കുന്നു അതിനാൽ സെല്ലിന്റെ മധ്യത്തിൽ ഇത് കൂടുതൽ കൃത്യമാണ് അതിനാൽ ഈ ഒത്തുതീർപ്പിന്റെ അർത്ഥം ഞാൻ ഇവിടെ ഒരു കേന്ദ്ര വ്യത്യാസം ഉപയോഗിക്കുന്നു എന്നാൽ ശരാശരി ചെയ്യുന്നതിലൂടെ ഇത് അതിരുകൾക്കുള്ളിൽ പകുതി സെല്ലിൽ പ്രയോഗിക്കപ്പെടുന്നു അതിനാൽ രണ്ടാമത്തെ ഓർഡറിന് ഫലം കൃത്യമായിരുന്നു കാരണം അത് കേന്ദ്ര വ്യത്യാസമായിരുന്നു അതിനാൽ ഈ അതിർത്തി വ്യവസ്ഥയിലേക്ക് എന്നതിന് നമ്മൾ പകരം വയ്ക്കുന്നത് ഇതാണ് നിങ്ങൾ പറയുന്ന ഏത് തരത്തിലുള്ള നടപ്പാക്കലിനും നമ്മൾ ഒരു അപ്ഡേറ്റ് സമവാക്യ ക്രമം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ നമ്മൾ എന്തു ചെയ്യും വിദ്യാർത്ഥി ഇതൊരു ഒരു കേന്ദ്ര വ്യത്യാസമാണ് ഇത് ഒരു കേന്ദ്ര വ്യത്യാസമാണ് കേന്ദ്ര വ്യത്യാസങ്ങൾ രണ്ടാമത്തെ ഓർഡറിൽ h ൽ അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് പോയിൻ്റിന് ഇടയിൽ ഉള്ള പ്രദേശത്തിൽ കൃത്യമാണ് ഒരു മുന്നോക്ക വ്യത്യാസവും അല്ലെങ്കിൽ പിന്നോക്ക വ്യത്യാസവും തമ്മിലുള്ള അകലം ആദ്യ ഓർഡറിന് മാത്രം കൃത്യമാണ് തുടക്കത്തിൽ പരിമിതമായ വ്യത്യാസത്തിൽ നമ്മൾ ചെയ്ത തെറ്റിന്റെ വർഗ്ഗമാണ് ഇത് അതിനാൽ ഇപ്പോൾ നമ്മൾ എന്തുചെയ്യും ഇവയെ ഈ പദപ്രയോഗത്തിൽ ഓരോന്നിലും എടുക്കും അതിനാൽ അതിനെയും ഇതിനെയും എടുത്ത് ഇവിടെ മാറ്റി നൽകുന്നു അത് എനിക്ക് എന്ത് തരും അത് എനിക്ക് ചില അപ്ഡേറ്റ് സമവാക്യം നൽകും ഈ വിവിധ പദങ്ങളിൽ നിന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യേണ്ട പദം എന്താണ് എനിക്ക് ശരിക്കും അപ്ഡേറ്റ് ചെയ്യേണ്ട പദം ഏതാണ് എനിക്കറിയില്ല മറ്റെല്ലാം എനിക്കറിയാം പ്രദേശത്തിന് അകത്തുള്ള ഉള്ള എല്ലാ ക്കും എനിക്ക് സാധാരണ ഉള്ള ഒരു അപ്ഡേറ്റ് സമവാക്യം ഉണ്ട് ഇപ്പോൾ ഏതു പദത്തിനാണ് എനിക്ക് അപ്ഡേറ്റ് സമവാക്യം ഇതുവരെ ഇല്ലാത്തത് അത് അതിർത്തിയിലുള്ള യ്ക്കാണ് അല്ലേ അപ്പോൾ അതാണ്

അതിനാൽ അപ്ഡേറ്റ് സമവാക്യം ലഭിക്കുന്നതിനായി മാറ്റി നൽകുമ്പോൾ എനിക്ക് എന്ത് ലഭിക്കും അതിനാൽ ഞാൻ വളരെ ലളിതമായി എഴുതാം അതിൽ ആകെ 4 പദങ്ങളും 4 പദങ്ങളും ചേർത്ത് 8 പദങ്ങളുണ്ട് അപ്പോൾ എന്താണ് ചെയ്യുക ഇടത് വശത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പദം നിലനിർത്തുക മറ്റെല്ലാം വലതുവശത്തേക്ക് നീക്കുക അതിനാൽ അന്തിമ പദപ്രയോഗം ഞാൻ എഴുതാം അപ്പോൾ ഗാമ എന്നൊരു പദം വരുന്നു അത് ധാരാളം സ്ഥിരാങ്കങ്ങളെ ഒന്നിച്ച് എഴുതുന്നു ഞാൻ അവസാന പദപ്രയോഗം എഴുതി ഇത് എന്താണെന്ന് നിങ്ങളോട് പറയുന്നതാണ് വിദ്യാർത്ഥി നമ്മൾ ഇത് പരിഗണിച്ചാൽ ഞാൻ നു വേണ്ടിയാണ് നോക്കുന്നത് അതാണ് എനിക്ക് വേണ്ടത് കാരണം അതാണ് അതിർത്തിയിൽ ഉള്ളത് ഗാമ എന്നത് ആയിരിക്കും ഇവിടെ എൻറെ സാധാരണമായ ഘടകമാണ്

അതിനാൽ ഇത് സ്ഥലത്തിന്റെയും സമയത്തിന്റെയും വിവിധ സ്ഥലങ്ങളിലെ യുടെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു അപ്ഡേറ്റ് സമവാക്യമാണ് അതിനാൽ ഇത് ലഭിക്കാൻ എനിക്ക് ഇവിടെ അത് അതേ പോയിൻറൻ്റിൽ വേണം അതിനാൽ ഇത് ആ പ്രദേശത്തെ അതേ പോയിന്റാണ് എനിക്ക് ഇപ്പോഴത്തെ സമയ വ്യത്യാസം കൃത്യമായി അറിയുന്നതിന് മുൻപ് ഒരു സമയത്തുള്ള അതിർത്തിയിലെ വൈദ്യുത മണ്ഡലം ആവശ്യമാണ് ഇവ തമ്മിലുള്ള ആകെ വ്യത്യാസം n ഉം n1 ഉം മാത്രമാണ് മറ്റുള്ളവ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് അവ അകത്താണ് i 1 ലാണ് അതിനാൽ ഇത് സാധാരണ അപ്ഡേറ്റ് സമവാക്യങ്ങളിൽ നിന്നാണ് അതിനാൽ ഇത് എങ്ങനെ ഇവിടെ അപ്ഡേറ്റ് ചെയ്യാം ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ തന്ത്രം ഉണ്ട് എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് തുടങ്ങുന്നതിനായി എനിക്ക് ഇതിനെ കുറിച്ച് അറിയണം മുൻപൊരു സമയത്തുള്ള അതിൻറെ മൂല്യം അറിഞ്ഞാൽ മാത്രമേ എനിക്ക് ഭാവിയിൽ ഈ അപ്ഡേറ്റ് സമവാക്യം ഉപയോഗിക്കാൻ ആവുകയുള്ളൂ അതിനാൽ ഈ പ്രശ്നത്തിൽ എന്തുചെയ്യാം തുടക്കത്തിൽ ഞാൻ ഇതെങ്ങനെ അറിയും

പ്രശ്നം എന്തെന്നാൽ ഏതെങ്കിലും സന്ദർഭത്തിൽ അതിർത്തിയിലെ മണ്ഡലം ലഭിക്കുന്നതിന് മുമ്പത്തെ സന്ദർഭത്തിലെ അതിർത്തിയിലെ മണ്ഡലത്തിൻറെ മൂല്യം ഞാൻ അറിയേണ്ടതുണ്ട് അതിനാൽ സിമുലേഷന്റെ തുടക്കത്തിൽ തന്നെ അത് എങ്ങനെ അറിയാമെന്ന് എനിക്ക് എങ്ങനെ അറിയാം വിദ്യാർത്ഥി 0 0 ശരിയാണ് അതിനാൽ സാധാരണയായി സംഭവിച്ചത് ഇതാണ് ഇത് ഇവിടെയുള്ള എന്റെ കണക്കുകൂട്ടൽ പ്രദേശം ആണെന്ന് പറയാം ഇത് ചില ആന്റിന അല്ലെങ്കിൽ അതുപോലുള്ള വസ്തുക്കളാണ് ചില സമയങ്ങളിൽ അതായത് t0 ൽ ഇവിടെയുള്ള മണ്ഡലങ്ങൾ ഒന്നും അതിർത്തിയിൽ എത്തിയിട്ടില്ല നമ്മൾ സമയത്തിന് അനുസരിച്ചാണ് സഞ്ചരിക്കുന്നത് അതിനാൽ മണ്ഡലം പതുക്കെ വസ്തുവിനെ തൊടുകയും തുടർന്ന് അത് പുറത്തേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്നു അതിനാൽ t 0 സമയത്ത് വളരെ സുരക്ഷിതമായി എനിക്ക് കളെ അതിർത്തിയിൽ പൂജ്യത്തിന് തുല്യമായി സജ്ജമാക്കാൻ കഴിയും അതിനാൽ സജ്ജമാക്കുക മണ്ഡലത്തിലെ പ്രാരംഭ വ്യവസ്ഥകൾ എനിക്ക് 0 ആയി ഉറപ്പിക്കാവുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതൊരു സാധാരണ രീതിയാണ് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ശരിയാക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും എന്നാൽ t 0 എന്ന സമയത്ത് ഞാൻ എന്റെ ഉറവിടം ഓണാക്കുകയാണെങ്കിൽ അപ്പോൾ മണ്ഡലം എവിടെയും എത്തിയിട്ടില്ല എല്ലാം 0 ആയിരിക്കുമെന്ന് ഞാൻ ഉറപ്പിക്കും അതിനാൽ നിങ്ങൾ ഈ കണക്കുകൂട്ടലുകൾ നടത്തുമ്പോൾ ഓരോ സമയത്തും നിങ്ങൾക്ക് ഫീൽഡ് മൂല്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയും ഫീൽഡ് ഏത് ദിശയിലേക്കും പുറത്തേക്ക് സഞ്ചരിക്കുന്നത് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണാം അതിനാൽ ഒന്നിലധികം ചിതറിക്കിടക്കലുകൾ നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ കഴിയും ഒടുവിൽ അതൊരു സ്ഥിരതയുള്ള മൂല്യത്തിലേക്ക് എത്തുന്നു FEM ലും ഇൻ്റഗ്രൽ സമവാക്യങ്ങളിലും ഒരു സ്ഥിരതയുള്ള മൂല്യത്തിലേക്ക് അത് എത്തുന്നത് നിങ്ങൾക്ക് കാണാനാകില്ല പക്ഷേ മിക്ക സാഹചര്യങ്ങളിലും ന്യായമായ ഒരു മൂല്യം ലഭിക്കുന്നു അതിനാൽ നമ്മൾ നോക്കിയത് നമ്മുടെ ആഗിരണം ചെയ്യുന്ന അതിർത്തി വ്യവസ്ഥകൾ എടുത്ത് FDTD ൽ എങ്ങനെ നടപ്പാക്കാം എന്നതാണ് അതിനായി നമ്മുടെ പ്രാരംഭ അവസ്ഥകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനാൽ ഇത് വ്യക്തമാണെങ്കിൽ നമ്മൾ ഈ മൊഡ്യൂൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അതിർത്തി അവസ്ഥ ഉയർന്ന ഓർഡറിന് കൃത്യമായി ശരിയാക്കുന്നതിനുള്ള വളരെ ലളിതമായ ഒരു മാർഗ്ഗം ഞാൻ സൂചിപ്പിക്കാം അപ്പോൾ ആദ്യം നമ്മൾ പ്രയോഗിച്ച അതിർത്തി വ്യവസ്ഥ എന്തായിരുന്നു ഇത് ഒന്നാം ഓഡർ ABC ആയിരുന്നു ഇപ്പോൾ എനിക്ക് പ്രതിഫലനം ഒരു കോണിൽ മാത്രമല്ല രണ്ടു കോണുകളിൽ 0 ആകണം എന്ന് കരുതുക അതിനാൽ ഈ പ്രയോഗം ഉപയോഗിച്ച് ചെയ്യുക എന്നതാണ് പ്രധാനം ഞാൻ അതിനായി പ്രയോഗിക്കുന്നത് ഇതാണ് അതിനാൽ ഈ രണ്ടും ഞാൻ സാമാന്യവൽക്കരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഈ പദപ്രയോഗം എഴുതുന്നു നമുക്കിത് പിന്നീടൊരിക്കൽ എന്തുകൊണ്ടാണിത് ശരിയെന്ന് ചെയ്തു നോക്കാം ഇത് ഒരു പദപ്രയോഗം ഇത് രണ്ടാമത്തെ ഓർഡർ ആയതിനാൽ ഇതുപോലെ രണ്ടു പദങ്ങൾ ഉണ്ടാകും

അതിനാൽ ഈ കോഴ്സിൽ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ നടപ്പിലാക്കാൻ പോകുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഉയർന്ന തലത്തിലുള്ള ഒരു ആശയം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഓൾ നമ്മൾ നേരത്തെ നടത്തിയ അതേ വിശകലനം ചെയ്യുക അതായത് ലംബം അല്ലാത്ത ദിശയിലേക്ക് തരംഗം സഞ്ചരിക്കുകയും പ്രതിഫലന ഘടകങ്ങൾ കണക്കാക്കുകയും ചെയ്യുക ഞാൻ ഇവിടത്തെ പ്രതിഫലന ഘടകം നും നും അനുസൃതമായി പ്ലോട്ട് ചെയ്താൽ ഇവിടെ സംഭവിക്കുന്നത് ഇതുപോലുള്ള ശൂന്യത നിങ്ങൾക്ക് ലഭിക്കുന്നു അതിനാൽ ഇവയെ ഹിഗ്ഡൺ അതിർത്തി വ്യവസ്ഥകൾ എന്ന് വിളിക്കുന്നു അതായത് അതു കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് അതിനാൽ ഉയർന്ന ഓർഡറിനെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ചകൾ ഇതോടെ അവസാനിക്കുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാം ഓർഡർ ABC കൾ എങ്ങനെ നടപ്പാക്കാം എന്നും ഉയർന്ന ഓർഡറുകളിൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്ന ഉയർന്ന തലത്തിലുള്ള ആശയങ്ങളുമാണ്